എൻപിടിഈഎൽ കോഴ്സിലെ ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം പ്രതിഫലിപ്പിക്കുന്ന പാരബോളോയിഡ് റിഫ്ലക്റ്റർ സിസ്റ്റത്തെക്കുറിച്ചുള്ള ചർച്ച ഞങ്ങൾ തുടരുകയാണ് ഫീഡ് റേഡിയേഷൻ പാറ്റേണിൽ നിന്ന് അപ്പർച്ചർ ഫീൽഡ് വിതരണം ഞങ്ങൾ കണ്ടു ഇപ്പോൾ ഈ മുഴുവൻ സിസ്റ്റത്തിന്റെയും ഡയറക്റ്റിവിറ്റി ഞങ്ങൾ കാണും അതിനർത്ഥം അപ്പർച്ചർ ഡയറക്റ്റിവിറ്റി അതിനാൽ ഫ്യൂറിയർ ട്രാൻസ്ഫോർം രീതിയിലൂടെ ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഒരു ഏകീകൃത സ്ഥിരമായ അപ്പേർച്ചർ ഫീൽഡിനായി ലീനിയർ പോളറൈസേഷനോടുകൂടിയ വികിരണ ഫീൽഡ് E എന്ന പദപ്രയോഗത്തിലൂടെ j k0 e പവർ മൈനസ j k0 r by 2 pi r a fx കോസ് phi plus fy സൈൻ phi plus a കോസ് theta fy കോസ് phi minus fx സൈൻ phi ഇത് ഞങ്ങൾ ഇതിനകം തെളിയിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ അപ്പർച്ചർ വൃത്താകൃതിയിലുള്ളതാണ് ആരം z ലെ ദൂരം 0 തലം തുല്യമാണ് അതിനാൽ നമ്മുടെ അപ്പർച്ചർ ഫീൽഡ് E0 ay രേഖീയമായി ധ്രുവീകരിക്കപ്പെട്ട യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് എഴുതാം ഞങ്ങൾ അത് അനുമാനിക്കുന്നു ഇപ്പോൾ ഇതിന് പ്രശ്നങ്ങളുണ്ടെന്ന് ഞങ്ങൾ കണ്ടു പക്ഷേ ആദ്യം നമുക്ക് ഡയറക്റ്റിവിറ്റി കാണാം അതിനർത്ഥം നമുക്ക് എത്രത്തോളം നേടാൻ കഴിയും ഈ ഏകീകൃത ഫീൽഡ് സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് ഏകപക്ഷീയമായി ഞാൻ അനുവദിക്കുo അതിനാൽ ഈ ലക്ഷ്യത്തോടെ എന്റെ ഫോറിയർ ട്രാൻസ്ഫോർം ft എന്തായിരിക്കും ft E0 ay ആയിരിക്കും അപ്പേർച്ചറിൽ e പവർ അതിനാൽ ഇത് 1 1 e ലേക്ക് പവർ j kx e പവർ j ky y dxdy വരെ ആയിരിക്കും ഇപ്പോൾ ഈ സമഗ്രത വിലയിരുത്തുന്നതിന് ഈ സമഗ്രമായ വിലയിരുത്തൽ അത്ര എളുപ്പമല്ല അതിനാൽ ഞാൻ നിങ്ങളെ സഹായിക്കും അതിനാൽ ഇത് ഒരു വൃത്താകൃതിയിലുള്ള ഡിസ്ക് ആയതിനാൽ ഞങ്ങൾ ധ്രുവീയ കോർഡിനേറ്റുകൾ അവതരിപ്പിക്കുന്നു പക്ഷേ ഇത് അപ്പർച്ചർ ആയതിനാൽ ഇവിടെ ഉറവിടമാണ് ഞങ്ങൾ പറയുന്നത് ധ്രുവീയ കോർഡിനേറ്റ് ρ എന്നതിനുപകരം ഞാൻ അതിനെ വിളിക്കുന്നു എനിക്ക് ρ എന്നും വിളിക്കേണ്ടതായിരുന്നു പക്ഷേ ഇത് ആശയക്കുഴപ്പത്തിലാകില്ല കാരണം മറ്റ് ഫീഡുകളുടെ കാര്യം ആണ് അതിനാൽ ഇതിന് ഇല്ലാത്തതിനാൽ ആശയക്കുഴപ്പമില്ല പക്ഷേ അങ്ങനെ ഉള്ളതിനാൽ നിരീക്ഷണ ഫീൽഡ് ഫൈയും സോഴ്സ് ഫീൽഡ് ഫൈയും അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത് ഇപ്പോൾ എന്റെ ρ എന്താണ് Ρ ഒന്നുമല്ല പക്ഷേ x സ്ക്വയറിനും y സ്ക്വയറിനും മുകളിലുള്ള റൂട്ട് അതിനാൽ x എന്നത് റോ കോസ് ഫി ഡാഷിന് തുല്യമാണ് y എന്നത് റോ സൈൻ ഫി ഡാഷാണ് കൂടാതെ kx എന്നത് k0 സൈൻ തീറ്റ കോസ് phi എന്നും ky k0 സൈൻ തീറ്റ സൈൻ phi എന്നും നമുക്കറിയാം അതിനാൽ എനിക്ക് ആ ft പദപ്രയോഗത്തിൽ ഉൾപ്പെടുത്താം അത് E0 ay ആയി മാറുന്നു തുടർന്ന് 0 മുതൽ a 0 മുതൽ 2 pi e വരെ പവർ j k0 ρ സൈൻ തീറ്റ കോസ്ഫി മൈനസ് ഫി ഡാഷ് ρ d ഫി ഡാഷ് d rho ഇപ്പോൾ ഈ കാര്യം പവർ ജെയിലേക്ക് എന്തോ ആകാം അത് ഒരു സീരീസ് വിപുലീകരണമാണ് ഈ വിപുലീകരണം ബെസെൽ ഫംഗ്ഷനുകളുടെ അടിസ്ഥാനത്തിലാണെന്ന് ആർക്കും അറിയാം അതിനാൽ എനിക്ക് കോസ് ഫി മൈനസ് ഫൈ ഡാഷിലേക്ക് സ്ഥിരമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എഴുതാം ബെസെൽ വിപുലീകരണം J0 ആണ് ഇത് നിങ്ങൾക്ക് സ്ഥിരമായി പറയാൻ കഴിയുന്ന w അല്ലെങ്കിൽ ഒമേഗയോ ആണ് അതിനർത്ഥം ഇവയിലേക്ക് ജെ ഗുണം ചെയ്യുക അതിനാൽ ജെ 0 ഒമേഗ മൈനസ് 2 ജെ 2 ഒമേഗ കോസ് 2 ഫൈ മൈനസ് ഫി ഡാഷ് മൈനസ് ജെ 4 ഒമേഗ കോസ് 4 ഫൈ മൈനസ് ഫി ഡാഷ് മുതലായവ അതിനാൽ വിവിധ സബ്സ്ക്രിപ്റ്റുകൾക്കായി ഞാൻ Jn ഒമേഗ എഴുതിയാൽ എന്താണ് അതിനാൽ എല്ലാ എഞ്ചിനീയറിംഗ് സയൻസ് പ്രശ്നങ്ങളിലും വരുന്ന ബെസെൽ ഫംഗ്ഷനാണിത് അതിനാൽ ബെസെൽ ഫംഗ്ഷൻ ഇത് ജെ എന്നാണ് അർത്ഥമാക്കുന്നത് ഇത് ആദ്യത്തെ തരം n എന്നുപറഞ്ഞാൽ n ഓർഡറിന്റെ ഇപ്പോൾ ഞാൻ ഇത് ഭാഗ്യവശാൽ ഈ കോസ് 2 ഫൈ മൈനസ് ഫൈ ഡാഷിൻറെ സംയോജനമാണെങ്കിൽ ഫൈ ഡാഷ് ഇത് 0 മുതൽ 2 പൈ കോസ് 4 വരെ വ്യത്യാസപ്പെടുന്നു അതിനാൽ 0 മുതൽ 2 പൈ സമന്വയം 0 ആയി മാറുന്നു 0 ആയി മാറാത്തത് J0 ഒമേഗ മാത്രമാണ് അതിനാൽ ft 2 pi J0 ലേക്ക് E0 ay 0 ആയി വരുന്നു k0 ρ sin theta rho d rho എന്ന് നമ്മൾ കാണും അതിനാൽ ഇത് സീറോ ഓർഡറിൻറെ ബെസെൽ ഫംഗ്ഷന്റെ സംയോജനമാണ് അതിനാൽ നിങ്ങളെ സഹായിക്കുന്ന മറ്റൊരു ഫോർമുലയുണ്ട് അതിനാൽ ഈ സൂത്രവാക്യം ഉപയോഗിച്ച് ഇത് 2 pi E0 ay 0 മുതൽ k0 വരെ ഒരു സൈൻ തീറ്റ ആയി മാറുമെന്ന് നിങ്ങൾക്ക് കണ്ടെത്താനാകും J0 k0 rho സൈൻ തീറ്റ k0 rho സൈൻ തീറ്റ by k0 സൈൻ തീറ്റ d by k0 സൈൻ തീറ്റ d of k0 സൈൻ തീറ്റ rho by k0 സൈൻ തീറ്റ അതിനാൽ നിങ്ങൾ അത് അവസാനമായി ചെയ്യുകയാണെങ്കിൽ 2 പൈ ഒരു ചതുരമായി മാറുന്നു E0 ay J1 k0 a സൈൻ തീറ്റ k0 a സൈൻ തീറ്റ ഇപ്പോൾ z ആക്സിസ് തീറ്റ 0 ആയതിനാൽ k0 സൈൻ തീറ്റ പൂർണ്ണമായും 0 അതിനാൽ ഈ J0 0 by 0 ഈ പദം നിങ്ങൾക്ക് J0 by 0 നൽകും ഇപ്പോൾ അതാണ് എൽ ഹോസ്പിറ്റൽ റൂൾ അതിനാൽ ഞങ്ങൾ ചെയ്യേണ്ടിവരും ഇവ വേർതിരിച്ചറിയുക തുടർന്ന് പരിധി ഇടുക അതിനാൽ ഈ ഭാഗം നിങ്ങൾക്ക് പകുതി നൽകുന്നു അത് pi ഒരു ചതുര E0 ay ആയി മാറുന്നു Z അക്ഷത്തിൽ E തലം പാറ്റേൺ തീറ്റ 0 ന് തുല്യമാണ് pi 2 ന് തുല്യമാണ് അതിനാൽ നമുക്ക് fy ലഭിക്കുന്നത് pi ഒരു ചതുരം E0 ഉം fx 0 ന് തുല്യവുമാണ് അതിനാൽ നമുക്ക് fy ഉണ്ട് fx എനിക്ക് അങ്ങനെ കിട്ടി E റേഡിയേറ്റഡ് ഫീൽഡ് പവർ k ലേക്ക് മൈനസ് j k0 r 2 pi r ആയിരിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയും നിങ്ങൾക്ക് ഇടാം അല്ലെങ്കിൽ ഞാൻ fy a എന്ന് എഴുതാം അതിനാൽ അത് പവർ മൈനസ് j k0 r pi a ചതുരം a ലേക്ക് j k0 E0 2 pi r e ആയിരിക്കും അതിനാൽ ഇതാണ് പവർ ഫീൽഡ് ഇപ്പോൾ ഈ ദിശയിലുള്ള യൂണിറ്റ് ഖര കോണീയ വികിരണ തീവ്രത r ചതുരശ്ര പകുതി Y0 E ചതുരമായിരിക്കും അതിനാൽ പവർ റേഡിയേഷൻ തീവ്രത z അക്ഷത്തിൽ വികിരണ തീവ്രത പറയാം ഇത് ഇതായിരിക്കും അതിനാൽ നിങ്ങൾ അങ്ങനെ ചെയ്താൽ അത് 1 മുതൽ 8 k0 വരെ ചതുര E0 ചതുരശ്ര Y0 a ആയി മാറും മറ്റൊരു കാര്യം നമുക്ക് മൊത്തം വികിരണ പവർ ആവശ്യമാണ് അതിനാൽ അത് അപ്പർച്ചറിനു മുകളിലായിരിക്കും പോയിന്റിംഗ് വെക്റ്റർ dA ലേക്ക് ഇപ്പോൾ അപ്പർച്ചറിനു മുകളിലൂടെ പോയിന്റിംഗ് വെക്റ്റർ എന്താണ് അപ്പെർച്ചറിനു മുകളിലൂടെ പോയിന്റിംഗ് വെക്റ്റർ അപ്പേർച്ചർ വളരെ അകലെയല്ലെങ്കിലും നമുക്ക് ഇതിനകം ഒരു സമാന്തര ബീമുകൾ ഉണ്ടെന്ന് പറയാം കൂടാതെ അവ കാന്തികക്ഷേത്രമാണെന്ന് തെളിയിക്കാനാകും ഓരോ ഫീൽഡിനും സമാനമാണ് അതിനർത്ഥം ആ കാര്യം മറികടക്കുന്നു അതിനാൽ ഇത് പകുതി Y0 E0 സ്ക്വയറായിരിക്കുമെന്ന് നമുക്ക് മിക്കവാറും എടുക്കാം അതിനാൽ വിദൂര ഫീൽഡ് പോലെ അത് അവിടെയും മാറുന്നു അതിനാൽ ഇത് ഉണ്ടെങ്കിൽ മൊത്തം വികിരണ പവർ Pr പകുതി Y0 E0 ചതുരമായിരിക്കും തുടർന്ന് വിസ്തീർണ്ണം 0 മുതൽ 2 pi വരെയും 0 മുതൽ a ρ d rho d phi വരെയും ആയിരിക്കും നിങ്ങൾ അങ്ങനെ ചെയ്താൽ അത് പകുതി പൈ ഒരു ചതുര Y0 E0 ആയി മാറുന്നു ഡയറക്റ്റിവിറ്റി 4 pi by lambda 0 ചതുരo അത്തരമൊരു ലളിതമായ ഫോർമുല അത്തരമൊരു ഉപയോഗപ്രദമായ ഫോർമുല ഇപ്പോൾ പൈ എന്താണ് ഒരു ചതുരം എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത് അപ്പർച്ചർ ഫിസിക്കൽ ഏരിയ അതിനാൽ അപ്പർച്ചർ ഫിസിക്കൽ ഏരിയ 4 ചതുരമല്ല ലാംഡ കൊണ്ട് ഗുണിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് 1 മീറ്റർ ദൂരമുള്ള ഒരു വിഭവമുണ്ടെങ്കിൽ pi അതിനാൽ 4 പൈ സ്ക്വയർ നിങ്ങൾക്ക് ഏകദേശം 40 നൽകുന്നു നിങ്ങൾ 10 ജിഗാഹെർട്സ് 3 സെന്റിമീറ്ററിലാണെങ്കിൽ 0 03 മുതൽ 0 03 വരെ 0 അതിനാൽ എനിക്ക് 0 01 എന്ന് പറയാൻ കഴിയും അതിനർത്ഥം 4000 ആണ് ഡയറക്റ്റിവിറ്റി 1 മീറ്റർ ദൂരം നിങ്ങൾക്ക് 4000 ഡയറക്റ്റിവിറ്റി നൽകാൻ കഴിയും തികച്ചും ശ്രദ്ധേയമാണ് എന്നാൽ വ്യക്തമായും ഇത് ഡയറക്റ്റിവിറ്റി ആയിരിക്കുമ്പോൾ നമുക്ക് കഴിയില്ല അതിനർത്ഥം നഷ്ടങ്ങളൊന്നുമില്ല ഇപ്പോൾ യഥാർത്ഥത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാകും അതിനാൽ സ്ഥിരമായ ഘട്ടം യൂണിഫോം ഫീൽഡുള്ള ഒരു അപ്പർച്ചർ ആന്റിനയിൽ നിന്ന് ലഭിക്കുന്ന പരമാവധി ഡയറക്റ്റിവിറ്റിഫിസിക്കൽ ഏരിയ 4 പൈ കൊണ്ട് ഗുണിച്ചാൽ ലാംഡ 0 ചതുരo വളരെ ലളിതമായ ഫോർമുല ഓർമ്മിക്കാൻ എളുപ്പമാണ് പക്ഷേ പാരബോളോയിഡ് ആന്റിന റിഫ്ലക്റ്റർ ആന്റിന സിസ്റ്റത്തിന്റെ നേട്ടം എന്തായിരിക്കും അത് ജി ആകും 4 പൈയ്ക്ക് തുല്യമാണ് ലാംഡ 0 ചതുരo പൈയിലേക്ക് ഒരു ചതുരം കാര്യക്ഷമതയിലേക്ക് ഇപ്പോൾ ഈ കാര്യക്ഷമത ആദ്യത്തേത് യഥാർത്ഥത്തിൽ നമ്മൾ കാര്യക്ഷമതയുടെ ഒരു നീണ്ട പട്ടിക അവസാനം കാണും തുടക്കത്തിൽ ഞാൻ എഴുതുന്നു η ആരംഭിക്കാൻ രണ്ട് കാര്യങ്ങളുണ്ടെന്ന് ഞാൻ ഓർക്കുന്നു ηS പിന്നീട് മറ്റുള്ളവ ഞങ്ങൾ അങ്ങനെ വരും ഞാൻ ഇവ പറയും ഇപ്പോൾ ഇത് ഞാൻ ആദ്യം കാണും ഇത് പിന്നെ മറ്റുള്ളവർ ഇപ്പോൾ ഇതിനെ സ്പിൽ ഓവർ എഫിഷ്യൻസി എന്ന് വിളിക്കുന്നു ηA എന്നത് അപ്പർച്ചർ കാര്യക്ഷമതയാണ് ഇപ്പോൾ അപ്പർച്ചർ കാര്യക്ഷമത എനിക്ക് അൽപ്പം സംസാരിക്കേണ്ടതുണ്ട് കാരണം ഞങ്ങൾ എന്തുചെയ്താലും എനിക്ക് ഒരു ഏകീകൃത പ്രകാശം ഉണ്ടെങ്കിൽ എനിക്ക് സ്ഥിരമായ ഒരു പ്രകാശം ഉണ്ടെങ്കിൽ എനിക്ക് ഒരൊറ്റ ധ്രുവീകരണ അപ്പർച്ചർ ഫീൽഡ് ഉണ്ടെങ്കിൽ ഞാൻ കണ്ടെത്തിയ ഡയറക്റ്റിവിറ്റി ലഭിക്കും ഇപ്പോൾ അപ്പർച്ചർ കാര്യക്ഷമത ഇവയെല്ലാം ലംഘിക്കുന്നതാണ് അതിനാൽ അപ്പർച്ചർ കാര്യക്ഷമതയിൽ പ്രകാശപ്രാപ്തി അടങ്ങിയിരിക്കും കാരണം ഒരു ടേപ്പർ ഉണ്ടെന്ന് ഞങ്ങൾ കണ്ടു ഇത് അപ്ലിക്കേഷൻ കാഴ്ചപ്പാടിൽ നിന്ന് അഭികാമ്യമാണ് അതിനാൽ അതിനെ ηi കൊണ്ട് ഗുണിച്ചാൽ അത് ആ ഘട്ടമായിരിക്കും അതിനാൽ ഒരു ഘട്ടം പിശക് ഉണ്ടാകുമെന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ അതാണ് ഘട്ടം മൂന്നാം കക്ഷികൾ ഇത് ധ്രുവീകരണമാണെന്ന് ഞാൻ കരുതുന്നു അതിനാൽ അടുത്തത് ആകർഷകമല്ലാത്ത ഒരു കാര്യം അതിനെ ടേപ്പർ ηx എന്ന് വിളിക്കട്ടെ അതിനാൽ ഇത് കാരണം യൂണിഫോം അല്ലാത്ത പ്രകാശം മൂലമാണ് ഇത് ഫെയ്സ് എറർ മൂലമാണ് ഘട്ടം ഏകീകൃതമല്ലാത്ത ഘട്ടം മൂലമാണ് തുടർന്ന് ηp ഇത് രേഖീയമല്ലാത്ത വസ്തുവിന്റെ ക്രോസ് പോൾ സാന്നിധ്യമാണ് അതിനാൽ സ്പിൽഓവർ കാര്യക്ഷമത എന്താണ് ഫീഡിൽ നിന്നുള്ള ചില വികിരണങ്ങൾ റിഫ്ലക്റ്റർ തടസ്സപ്പെടുത്തുന്നില്ല എന്നതാണ് സ്പില്ലോവർ കാര്യക്ഷമത കാരണം റിഫ്ലക്റ്റർ പരിമിതമാണ് അതിന് ഒരു കോണീയ അപ്പർച്ചർ ഉണ്ട് അതിനാൽ ഇത് എല്ലാ രശ്മികളെയും തടസ്സപ്പെടുത്തുന്നില്ല അതിനാൽ അവിടെ വൈദ്യുതി നഷ്ടപ്പെടും തീർച്ചയായും ഞങ്ങൾ മൊത്തം ഊർജ്ജം വികിരണം ചെയ്യുന്നുവെന്ന് അനുമാനിക്കുന്നു പക്ഷേ ആ ശക്തി അങ്ങനെ പ്രതിഫലിക്കുന്നില്ലെങ്കിൽ ആത്യന്തികമായി അപ്പർച്ചറിന് ആ ശക്തി ലഭിക്കുന്നില്ല അതിനാൽ നേട്ടം തീർച്ചയായും കുറയ്ക്കും അതിനെ സ്പില്ലോവർ നഷ്ടം എന്നും കാര്യക്ഷമത ഘടകം എന്നും വിളിക്കുന്നു അതിനാൽ ഇപ്പോൾ സ്പിൽഓവർ കാര്യക്ഷമത എന്താണ് അതിനാൽ ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് കാര്യക്ഷമതയെ ബാധിക്കുന്നതിനെക്കുറിച്ചാണ് ഫീഡ് വഴി വികിരണം ചെയ്യുന്ന മൊത്തം ശക്തിയാൽ റിഫ്ലക്റ്റർ തടസ്സപ്പെടുത്തുന്നു അതിനാൽ അതെന്താണ് പവർ ഇന്റർസെപ്റ്റഡ് എന്നാൽ എനിക്ക് g പവർ റേഡിയേഷൻ പാറ്റേൺ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ അതിനാൽ phi 0 മുതൽ 2 pi വരെയും തീറ്റ 0 മുതൽ psi വരെയും കോണീയ അപ്പർച്ചറിന്റെ 2 പകുതിയാണ് കാരണം 0 മുതൽ 2 pi വരെ ഞാൻ നൽകുന്നു അതിനാൽ ഇവിടെ 0 മുതൽ psi by 2 ഇത് റിഫ്ലക്റ്റർ തടസ്സപ്പെടുത്തുന്ന ശക്തിയാണ് ഇവിടെ 0 മുതൽ 2 pi 0 വരെ pi g തീറ്റ ഫൈ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ എല്ലാം അതാണ് കാര്യക്ഷമതയെ ചൊരിയുന്നത് ഇപ്പോൾ ആത്യന്തികമായി ഈ സ്പിൽഓവർ കാര്യക്ഷമത കണ്ടെത്താൻ എനിക്ക് താൽപ്പര്യമില്ലെന്ന് ഞങ്ങൾ കാണും അല്ലെങ്കിൽ സംയുക്തമായി ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പിന്നീട് കാണും വാസ്തവത്തിൽ മറ്റുള്ളവ വെവ്വേറെ ചെയ്യാൻ കഴിയും എന്നാൽ ഇവ രണ്ടും ഞാൻ വിശദീകരിച്ചു എനിക്ക് ഒരു ഏകീകൃത പ്രകാശം ലഭിക്കണമെങ്കിൽ സ്പിൽഓവർ വർദ്ധിക്കുന്നു സാധ്യമായ ഏറ്റവും മികച്ച പ്രകാശമാണ് സെക്കന്റിൽ പവർ 4 തീറ്റ 2 എന്ന് പക്ഷേ അത് ധാരാളം നൽകുന്നു അതിനാൽ ഇവ രണ്ടും കൂട്ടിച്ചേർക്കപ്പെടുന്നു ഒന്ന് മറ്റൊന്നിനെ സ്വാധീനിക്കുന്നു അതിനാൽ അത് ചെയ്യാൻ ശ്രമിക്കുന്നതിനുപകരം ഞങ്ങൾ ഇത് സംയുക്തമായി പരമാവധി വർദ്ധിപ്പിക്കും ഇപ്പോൾ ഞാൻ ചെയ്യുന്നതെന്താണെന്ന് കൂടുതൽ വിലയിരുത്തുന്നതിനുപകരം ഫീഡിൻറെ നിർദ്ദേശം ഇവിടെ ഇടാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനർത്ഥം ഇത് ഇവിടെ റേഡിയേഷൻ പാറ്റേൺ ആണ് അതിനാൽ ഫീഡിൻറെ ഡയറക്റ്റിവിറ്റി ഇടാൻ ഞാൻ ആഗ്രഹിക്കുന്നു Df ഇപ്പോൾ ഫീഡിൻറെ നിർദ്ദേശം എന്താണ് ഫീഡിൻറെ ഡയറക്റ്റിവിറ്റി എഴുതാൻ Df എന്നെ അനുവദിക്കുക അതിന്റെ പദപ്രയോഗം എന്തായിരിക്കും ഫീഡ് വഴി മൊത്തം വികിരണശക്തിയാൽ 4 pi g 00 അതിനാൽ ഇത് ഒന്നുമല്ലെന്ന് നിങ്ങൾ കാണുന്നു പക്ഷേ ഈ ഡിനോമിനേറ്ററിനെ പോഷിപ്പിക്കുന്നതിലൂടെ മൊത്തം വികിരണശക്തി അതിനാൽ ηS Df ആണെന്നും 0 മുതൽ 2 pi 0 വരെ psi യ്ക്ക് 2 g എന്നും എനിക്ക് എഴുതാൻ കഴിയുമോ ഇത് യഥാർത്ഥത്തിൽ 4 pi g 00 സൈൻ തീറ്റ d തീറ്റ d phi ഞാൻ അത് ഉപേക്ഷിക്കും ഇവിടെ ഇപ്പോൾ അടുത്തതായി ഞാൻ ആരംഭിക്കുന്നത് ഞാൻ സംയുക്തമായി ചെയ്യുമെന്നതിനാൽ ഞാൻ പറഞ്ഞതുപോലെ ഉപയോഗിക്കും അതിനാൽ അപ്പർച്ചർ കാര്യക്ഷമതയ്ക്കായി ഒരു എക്സ്പ്രഷൻ കണ്ടെത്തിയതിനുശേഷം ഞാൻ ഇത് എടുക്കും ηA അപ്പോൾ ആരാണ് ഈ അപ്പർച്ചർ കാര്യക്ഷമത നൽകുന്നത് ആദ്യം എനിക്ക് അപ്പേർച്ചറിൽ ഒരു ടാപ്പുചെയ്ത ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് തുടർന്ന് അപ്പർച്ചർ ഫീൽഡിനായി സ്ഥിരമല്ലാത്ത ഘട്ടവും അനാവശ്യ ക്രോസ് പോളറൈസ്ഡ് ഫീൽഡിൻറെ സാന്നിധ്യവും മൂലം ഉണ്ടാകുന്ന നഷ്ടം അതിനാൽ യഥാർത്ഥത്തിൽ ഈ പദപ്രയോഗം ലഭ്യമാണ് അല്ലെങ്കിൽ അത് ഉരുത്തിരിഞ്ഞേക്കാം പക്ഷേ ഞാൻ അത് ചെയ്യില്ല കാരണം അത് കൂടുതൽ ഗണിതശാസ്ത്രപരമായിരിക്കും അതിനാൽ എനിക്ക് എഴുതാൻ കഴിയും ηi ഇതിനെ പ്രകാശ കാര്യക്ഷമത എന്ന് വിളിക്കുന്നു തുടർന്ന് സ്ഥിരതയില്ലാത്ത ഫെയ്സ് എറർ കാര്യക്ഷമതയും ക്രോസ് പോളറൈസ്ഡ് കാര്യം ηx ഉം ആണ് അതിനാൽ ഇത് പ്രകാശ കാര്യക്ഷമതയാണ് ഇതാണ് ഫെയ്സ് എറർ കാര്യക്ഷമത ഇത് ക്രോസ് പോളറൈസ്ഡ് കാര്യക്ഷമതയാണ് അതിനാൽ ഞാൻ പോകുന്നില്ല ചില കാര്യങ്ങളുടെ ഒരു നീണ്ട പട്ടികയുണ്ട് അതിനാൽ ηp ηx എന്നിവ ഒന്നാണെന്നതിന്റെ പ്രകാശപ്രാപ്തി പിന്നീട് അവയുടെ മൂല്യങ്ങൾ ഞങ്ങൾ ഉൾപ്പെടുത്തും അതിനാൽ ആ അനുമാനത്തിന് കീഴിൽ ഇത് ഉരുത്തിരിഞ്ഞേക്കാം താൽപ്പര്യമുള്ള ആരെങ്കിലും കോഴ്സ് പേജിലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇത് ഡെറിവേഷൻ അപ്ലോഡ് ചെയ്യാൻ കഴിയും എന്നാൽ അവസാനമായി നമുക്ക് വേണ്ടത് ηi പ്രകാശത്തിന്റെ കാര്യക്ഷമത ഇതുപോലുള്ള ഒരു പദപ്രയോഗമായി മാറുന്നു എന്നതാണ് പ്രകാശ കാര്യക്ഷമതയ്ക്കായി ലഭിക്കുന്ന പദപ്രയോഗമാണിത് ഇപ്പോൾ നിങ്ങൾ ഈ പദപ്രയോഗം വിശ്വസിക്കുന്നില്ലെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് ഒരു പരിശോധന നൽകാം ഏകീകൃത അപ്പർച്ചർ ഫീൽഡിനായി g തീറ്റ ഫൈ 2 സെക്കന്റിൽ 4 തീറ്റയ്ക്ക് ആനുപാതികമായിരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഈ പദപ്രയോഗത്തിൽ g മൂല്യങ്ങളും ηi 1 ഉം ആയിരിക്കണം അപ്പോൾ ഇത് പറയാനുള്ള പരോക്ഷ മാർഗമായിരിക്കും പദപ്രയോഗം അതിനാൽ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും നിങ്ങൾ അത് അവിടെ വച്ചാൽ ഈ റ്റാൻ നിങ്ങൾ കാണും Rho എന്നത് 2f ടാൻ പൈ 4 ന് തുല്യമാണെന്ന് ഞങ്ങൾ കണ്ടെത്തിയപ്പോൾ ഇതിനകം തന്നെ a യുടെ മൂല്യം ഞങ്ങൾ കണ്ടെത്തി അതിനാൽ ആ മൂല്യം ഇടുക ηi 1 ആയി മാറുന്നു അത് ഇവിടെ 1 ആയി മാറുന്നു അതിനാൽ ഈ പദപ്രയോഗം ശരിയാണ് അതിനാൽ ഇവ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് ഇപ്പോൾ നമ്മൾ കാണും ഇത് ഈ രണ്ട് പദപ്രയോഗങ്ങളായ ηA ηS എന്നിവ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് സംയുക്തമായി കാണാമെന്ന് ഞങ്ങൾ കാണും പക്ഷേ അടുത്ത ക്ലാസ്സിൽ നമ്മൾ കാണും അതിനാൽ ഞങ്ങൾ ഇപ്പോൾ പ്രകാശപ്രാപ്തി കണ്ടെത്തി ഇതിനർത്ഥം ഞാൻ ഈ സൂത്രവാക്യവും സ്പിൽഓവർ കാര്യക്ഷമതയും നൽകി എന്നാണ് അതിനാൽ അടുത്ത ക്ലാസ്സിൽ ഒരു എഞ്ചിനീയർ എന്ന നിലയിൽ അത് എങ്ങനെ കളിക്കാമെന്ന് ഇപ്പോൾ നമ്മൾ കാണും നന്ദി